എല്ലാവർക്കും അനിമൽ സെൽ കൾച്ചറിൻറെ അധ്യയന പരമ്പരയിലെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഒരു വെർച്വൽ ലാബിലൂടെ കടന്നുപോയി എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായെന്നു ആണ് അതിൻറെ മൊത്തം മാതൃക ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളും സാമ്പത്തികമായ പ്രശ്നങ്ങളും എല്ലാം നോക്കിയിരുന്നു ഇനി ഞാൻ എൻറെ സമയം ചിലവാക്കാൻ പോകുന്നത് കുറച്ച് പുരോഗമിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് അതിനെക്കുറിച്ച് മിക്കവാറും പരീക്ഷണശാലകളിൽ സംസാരിക്കാറില്ല പക്ഷേ നിങ്ങളിൽ ചിലർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിവരും എന്തായാലും നമ്മൾ ഒരു മാതൃക തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടേണ്ടതുണ്ട് അതിനാണ് ഞാൻ കുറച്ച് സ്ഥലം വിടാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതാണ് കാര്യം ഇപ്പോൾ നമ്മൾ മൂന്നാം വാരത്തിലെ മൂന്നാമത്തെ ഭാഗത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് w3 L3 ലേക്ക് കടക്കാം നമുക്ക് സെൽ കൾച്ചർ ലാബിലേക്ക് വേണ്ടിയിട്ടുള്ള ചില വൈദഗ്ധ്യം നേടിയിട്ടുള്ള സൌകര്യങ്ങളെക്കുറിച്ച് പറയാം നിങ്ങൾ സ്പേസ് ബയോളജിയിൽ ആണ് ജോലി ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടിവരിക നിങ്ങൾക്ക് ഇതിലെ ചില പ്രത്യേക പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ചില സ്ഥലങ്ങൾ പ്രത്യേകം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് സ്പേസ് ബയോളജിയിൽ പ്രത്യേകമായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് കോശങ്ങളെ ശരീരത്തിന് പുറത്ത് വളരാൻ ആയിട്ടുള്ള പ്രേരണ ചെയ്തു കൊടുക്കുന്ന സ്ഥലം തയ്യാറാക്കുക ഇതിന് ഉപയോഗിക്കുന്നത് ഒരു സീറോ ഗ്രാവിറ്റി സിമുലേറ്റർ ആണ് അതിനെ സാധാരണമായി പറയുന്നത് ക്ലിനോസ്റ്റാറ്റ് ഇത് വളരെ ആകർഷകമായ ഒരു വസ്തുവാണ് നിങ്ങൾക്കറിയാമോ ഇത് ഒരു പ്രത്യേക ആർപിഎം ൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സാമ്പിൾ ഇവിടെ എവിടെയെങ്കിലും വെക്കും അപ്പോൾ കോശങ്ങൾ ഒരു പ്രത്യേക ഗുരുത്വാകർഷണം അനുഭവിക്കും അങ്ങനെ ഗുരുത്വാകർഷണം മാറുന്നു ഇതുപോലത്തെ യന്ത്രങ്ങളാണ് ജപ്പാനിലെ പാനസോണിക് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ അടുത്ത് ക്വാളിറ്റി എൻജിനീയർ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് കാരണം ഇതിൻറെ രൂപകല്പന എപ്പോഴും കിട്ടുന്നതാണ് ഇതിൻറെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് സീറോ ഗ്രാവിറ്റി അല്ലെങ്കിൽ മൈക്രോ ഗ്രാവിറ്റിയിൽ കോശങ്ങൾ എങ്ങനെ വളരുന്നു എന്ന് കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ കോശങ്ങൾക്ക് വളരാനുള്ള ഒരു ഡിഷ് ഇതിലുണ്ട് ഇത് കറങ്ങുമ്പോൾ ഇതിൽ നിന്നുള്ള സംഭവങ്ങൾ പുറത്തോട്ട് തെറിച്ചു വീഴാം അതുകൊണ്ട് ഇതിനകം എല്ലാം നല്ല വൃത്തിയായി അടച്ചു വെച്ചിരിക്കുകയാണ് നല്ല വായുസഞ്ചാരവും ഉണ്ടാവണം അത് ക്ലിനോസ്റ്റാറ്റിൻറെ അകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ ഒരു സൌകര്യം നിങ്ങളുടെ സിസ്റ്റത്തിൻറെ അകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും എവിടെയാണ് നിങ്ങൾക്ക് ഈ സാധനത്തെ വെക്കാൻ പറ്റുക എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ബാക്കിയുണ്ട് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ നിങ്ങളോട് കുറച്ചു സ്ഥലം വിടാൻ പറഞ്ഞിരുന്നു അതിനു കാരണം നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ വെക്കേണ്ടി വരും എന്ന് നിങ്ങൾക്ക് അറിയില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്പേസ് ബയോളജിയുടെ സജ്ജീകരണമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു വൈദഗ്ധ്യമുള്ള സജ്ജീകരണമാണ് നിങ്ങൾ കൂട്ടുന്നത് അതിന് അസാധാരണമായ അത്യന്തം പരിസ്ഥിതി സംബന്ധമായ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരുന്നത് എന്ന് വയ്ക്കുക നിങ്ങൾക്ക് സോഫ്റ്റ് നോർത്ത് പോൾ സൌത്ത് പോൾ ആണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥ സൃഷ്ടിക്കാൻ പറ്റുന്ന ഇങ്കുബേറ്ററുകളാണ് വേണ്ടിവരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ വേറെ വേറെ സ്ഥലങ്ങളിൽ ആണ് വെക്കേണ്ടത് ആയിട്ടുള്ളത് നിങ്ങൾ ഇപ്പം ഒരു പരീക്ഷണശാലയുടെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എവിടെ ചെന്നെത്തും എന്ന് പക്ഷേ നിങ്ങൾ ഇതിനുവേണ്ടി തയ്യാറായിരിക്കണം അതായത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാനിത് ചെയ്യും എന്നുള്ള രീതിയിൽ പിന്നെ ഈ ലോകത്തിലുള്ള പല പരീക്ഷണശാലകളും ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കോശങ്ങളെ മൈക്രോസ്ട്രക്ക്ച്ചറിലോട്ട് ചേർത്തു വയ്ക്കുന്നത് നിങ്ങൾ അതിനെ ബയോമെമസ് എന്ന് കേട്ടിട്ടുണ്ടാവും അതിൽ M കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈക്രോ എന്നും E കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോ എന്നും M കൊണ്ട് മെകാനിക്കൽ എന്നും S കൊണ്ട് സിസ്റ്റം എന്നും അപ്പൊ ഇത് ബയോളജിക്കൽ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം എന്നായി നമ്മൾക്ക് ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം വിപണിയിൽ ഉള്ള മറ്റൊരു സാധനമാണ് ലാബ് ഓൺ എ ചിപ്പ് ഇത് മറ്റൊന്നുമല്ല വെറും കോശങ്ങളെ ഇതിൽ വളർത്തുന്ന പരിപാടി ആണ് മീഡിയവും മറ്റ് സാധനങ്ങളും നിങ്ങൾ ഇതിലേക്ക് കൊടുക്കേണ്ടതാണ് നമുക്ക് അതിലേക്ക് പിന്നെ വരാം നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക യഥാക്രമം നമുക്ക് അതിലേക്ക് വരാം നിങ്ങൾക്ക് ഇത്തരം ജോലികൾ ചെയ്യാനായി സ്ഥലം അതിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ അത് ഇവിടെ ചെയ്യുക ദാ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോക്ലേവ് ഉണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം വെറുതെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതുമാത്രമല്ല വേറെ കുറച്ച് സംഭവങ്ങൾ ആയ ഇലക്ട്രിക്കൽ റെക്കോർഡിങ് ഉള്ള സജ്ജീകരണങ്ങളും ഉണ്ടാകും അങ്ങനെയുള്ളതായ മൈക്രോഇലക്ട്രോഡ് ആറേസ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ഇതിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അത്തരം സാധനങ്ങൾ എല്ലാം നേരത്തെ അവിടെ ഉണ്ടാക്കി വെക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ നേരത്തെ അവിടെ ഉണ്ടാവേണ്ടതാണ് നിങ്ങൾക്ക് അവസാനനിമിഷം ഉണ്ടാക്കാൻ സാധ്യമല്ല എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം എന്ന് അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് പിന്നീട് അവിടെ എന്തെങ്കിലും കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരിക്കണം നിങ്ങടെ ബയോളജിക്കൽ സാമ്പിൾ അവിടെയാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുവെച്ച് അവിടെയും ഇവിടെയും എന്തൊക്കെ വേണം എന്ന് തീരുമാനിക്കുക കാരണം നിങ്ങൾക്ക് കൾച്ചറിൽ മലിനീകരണം ഉണ്ടാകുന്നത് തടയാൻ കഴിയും കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം മലിനീകരണം ഉണ്ടാവുന്നതാണ് നിങ്ങൾ അസെപ്റ്റിക് രീതികൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സൂചനകൾ കിട്ടും യഥാർത്ഥത്തിൽ പറയുന്നില്ലെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു വെർച്വൽ ലാബ് എങ്ങനെ ഉണ്ടാകും എന്ന് കാണിക്കുവാൻ ആണ് അതായത് ഒട്ടിപ്പിടിക്കുന്ന ചവിട്ടുമെത്ത വായു സഞ്ചാരം നിങ്ങൾ ലാമിനാർ ഫ്ലോ ഹുഡിൽ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ളത് അത് നിങ്ങൾ എവിടെയാണ് വെക്കേണ്ടത് അത് കാരണം നിങ്ങൾക്ക് എന്തുമാത്രം സ്ഥലം ലഭിക്കാൻ പറ്റും എന്നുള്ളത് പുറത്തെ വായു സഞ്ചാരത്തിൻറെ ദിശ പിന്നെ എവിടെയാണ് തള്ളിനീക്കാൻ പറ്റുന്ന വാതിലുകൾ വെക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഇതൊക്കെ വളരെ കുറച്ച് ഉപദേശങ്ങളാണ് എങ്ങനെ ഒരു അസെപ്റ്റിക് രീതി പരീക്ഷണശാലകളിൽ സംഘടിപ്പിക്കാം എന്നുള്ളതിന് മൈക്രോ ഇലക്ട്രോമെക്കാനിക്കൽ സിസ്റ്റത്തിലാണ് നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ അതിനെക്കുറിച്ച് തീരുമാനിക്കുക അവസാനമല്ല അത് കാരണം നിങ്ങൾക്ക് പരീക്ഷണശാല അതിനുവേണ്ടി സജ്ജീകരിക്കാൻ കഴിയും കോശങ്ങളെ ഇലക്ട്രോഡ് ൽ ഘടിപ്പിക്കുക എന്ന ജോലി ചെയ്യാൻ വേണ്ടി ഉള്ള സഹപ്രവർത്തകരെയും തയ്യാറാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കേണ്ടത് ആയിട്ടുണ്ട് അത് വെച്ച് പല ആൾക്കാർക്കും വന്നു ജോലി ചെയ്യാൻ പറ്റും അതുകൊണ്ട് മുൻപേ ഓർത്തു വയ്ക്കുക ഒരുപാട് ആൾക്കാർ വിഷവും കോശവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നുണ്ടാവും അതുകൊണ്ട് അവർക്ക് വേണ്ടത് പ്രത്യേകമായ ഒരു ഹുട് ആണ് അവിടെ അവർക്ക് വിഷാംശമുള്ള സാധനങ്ങൾക്ക് കോശങ്ങളിൽ ഉള്ള പ്രഭാവം നോക്കാൻ സാധിക്കും നിങ്ങൾ ഇവിടെ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ഒരു വ്യക്തി ജോലി ചെയ്യുന്നത് മറ്റൊന്നിൽ ആണ് അതുകൊണ്ട് വേറൊരു ഇൻകുബേറ്റർ ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതാണ് കാരണം ഇത് വിഷാംശമുള്ളത് ആയതുകൊണ്ട് എന്താണ് ഇതിൽ നിന്ന് ഉണ്ടായി വരുന്നത് എന്നു ഒന്നും നമുക്കറിയില്ല ഇതാണ് മിക്കവരും വ്യവസായരംഗത്ത് കാണുന്ന ഒരു പ്രശ്നം ചില വിഷാംശമുള്ള സംഭവങ്ങൾ പ്രാണികളിൽ നിന്നും പൂപ്പലുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളിൽ നിന്നും വരാറുണ്ട് അതുകൊണ്ട് എപ്പോഴും സൂക്ഷ്മാണുക്കളുടെ സജ്ജീകരണങ്ങൾ സസ്തനജീവികളുടെ സജ്ജീകരണവും ആയി മാറ്റി വയ്ക്കേണ്ടതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരെ ചേർത്ത് വയ്ക്കാതെ വേറെ മാർഗ്ഗമില്ല എന്നു വരും അങ്ങനെയുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ കഴിവതും അവർ തമ്മിൽ കുറച്ചുദൂരം ഇടാൻ ശ്രമിക്കുക വേറൊരു മാർഗമില്ലാതെ വരുമ്പോൾ ഈ രണ്ടു കൾച്ചർ ഫെസിലിറ്റിയും അടുത്താണ് വെക്കേണ്ടിവരുന്നത് നിങ്ങൾ എപ്പോഴും ശുചിത്വം ആയ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് മൈക്രോബിയൽ കൾച്ചറിൽ നിന്ന് മമാലിയൻ കൾച്ചറിലോട്ടോ അനിമൽ കൾച്ചറിലോട്ടോ മലിനീകരണം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരികയില്ല നിങ്ങൾക്ക് ഒരു പരീക്ഷണശാലയിൽ സെൽ കൾച്ചർ ഫെസിലിറ്റി ഉണ്ടാക്കണംഅതിൽ മൈക്രോബിയൽ ഫെസിലിറ്റിയുടെ അടുത്താണ് ബാക്കിയുള്ള കൾച്ചർ ഫെസിലിറ്റി എങ്കിൽ കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് അങ്ങനെ ആണെങ്കിൽ അശുദ്ധി ആക്കുന്ന സാധനങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വീഴുകയില്ല പിന്നെ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ഇതുവരെ പലപല പ്രത്യേക സ്ഥലങ്ങൾ നോക്കി വയ്ക്കേണ്ട കാര്യം ശ്രദ്ധിച്ചു ഇത് ഒരുപാട് ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സ്പേസ് സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്നതിനെകുറിച്ചും സ്പേസ് ബയോളജിയെ കുറിച്ചും അത്യന്തം പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചും ആണ് സംസാരിച്ചത് നിങ്ങൾ ഇപ്പൊ പ്രത്യേകമൊരു ഇൻകുബേറ്ററിൽ ജോലിചെയ്യുന്നു അല്ലെങ്കിൽ ഒരു മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെക്കോർഡിങ് ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് അടുത്ത് ഉണ്ടാവുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടും അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പിന്നെ പറയാം അതായത് ചിലർ മൈക്രോ ഫ്ലൂയിടിൽ ജോലി ചെയ്യുന്നുണ്ടാവും ചിലർ റിയാക്ടർ ഡിസൈനിൽ ജോലി ചെയ്യുന്നുണ്ടാവും ചിലർ മൈക്രോ റിയാക്ടറിൽ ജോലി ചെയ്യുന്നുണ്ടാവും ഗ്യാസ് എക്സ്ചേഞ്ച് അസംബ്ലികളിലും ലിത്തോഗ്രാഫിയിലും ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം മൈക്രോ അല്ലെങ്കിൽ ബയോമെമസിൻറെ അടിസ്ഥാന ഭാഗമായി ഉൾപ്പെടും ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചു വെക്കേണ്ടതാണ് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഭാഗിക്കാൻ പോകുന്നത് എന്ന് ഇവിടെ പല മാർഗ്ഗങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇങ്ങനെ സജ്ജീകരിച്ച ഒന്ന് എൻറെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിനെ ഞാൻ നാലായി വിഭജിക്കാൻ പോവുകയാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ മൂലയിൽ നിന്ന് നിങ്ങൾ അകത്തേക്ക് കയറുകയാണ് ഇതിനെ എല്ലാം നിങ്ങൾ അടുക്കി വെക്കുകയാണ് എന്ത് തരത്തിലുള്ള ഉള്ള ഫെസിലിറ്റി ആണെങ്കിലും നമുക്ക് പല രീതിയിലും ഇതിനെ സജ്ജീകരിക്കാവുന്നതാണ് വെർച്വൽ സിസ്റ്റത്തിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടായി ഉണ്ടാവുന്നതാണ് ഒന്നാം ഭാഗം രണ്ടാംഭാഗം നിങ്ങൾക്ക് മൂന്നു നാലു ഭാഗവും ഉണ്ടാക്കാവുന്നതാണ് ഇതെല്ലാം സാഹചര്യത്തിനനുസരിച്ച് മാറും നിങ്ങൾ ഇതിനെ കുറിച്ച് എല്ലാം ഒരു സഹായ ഗ്രന്ഥത്തിൽ വരച്ചുവയ്ക്കുക എല്ലാം മുൻകൂട്ടി കാണുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് കിട്ടും പക്ഷേ നേരത്തെ തയ്യാറെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടും നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് നോക്കേണ്ടത് അതിൽ ഒന്നാമതായി എത്രപേരാണ് ഈ പരീക്ഷണശാല ഉപയോഗിക്കുക എന്ന് രണ്ടാമത് ഏതൊക്കെ മേഖലകളിലാണ് താല്പര്യം എന്ന് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത് സാമ്പത്തികവും നോക്കേണ്ടതാണ് പിന്നെ ഓരോ വർഷവും നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടണമെന്ന് തീരുമാനിച്ചു വെക്കേണ്ടതാണ് ഈ ഒരു വർഷത്തിൽ ഞാൻ ഇത് നേടും അടുത്തഘട്ടത്തിൽ ഉള്ള നിക്ഷേപത്തിൽ ഞാനിത് നേടും അടുത്ത നിക്ഷേപത്തിൽ ഇത് അങ്ങനെ അതുവെച്ച് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ സ്ഥലം വിനിയോഗിക്കാൻ കഴിയും അനാവശ്യമായ സാധനങ്ങൾ എടുത്തു സ്ഥലം കളയാതിരിക്കുക കാരണം നിങ്ങൾക്കറിയാം പിന്നീടത് മാറ്റേണ്ടിവരും ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലം എല്ലാം നിറയ്ക്കാൻ വേണ്ടി സാധനങ്ങൾ വയ്ക്കുന്നവർ പക്ഷേ അത് മണ്ടത്തരമാണ് എനിക്കിപ്പോ അടുത്ത പത്ത് വർഷത്തേക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത 20 വർഷത്തേക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥലം അനാവശ്യമായി നിറക്കേണ്ട ആവശ്യം ഇല്ല അതിനെ അതുപോലെ തന്നെ വെറുതെ വിടാം അതിൽ ഒരു പ്രശ്നവുമില്ല ഇവിടെ ഞാൻ മറന്നു പോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ എല്ലാം മതില് വയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ സംഭരിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണം നിങ്ങൾ ഇത് മതിലിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഓർക്കുക ഒരു ഏണി കൂടി വേണ്ടിവരും ആ ഏണിയെ അടുത്തു തന്നെ വെക്കണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് മടക്കാൻ പറ്റുന്ന ഏണി ഉപയോഗിക്കാവുന്നതാണ് പല പലതരത്തിലുള്ള ഉള്ള മടക്കാൻ പറ്റുന്ന ഏണികൾ സംഭരണ സ്ഥലത്തുനിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾ പരീക്ഷണശാല ഉണ്ടാക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക ഇനി വരുന്നത് എന്ത് തരത്തിലുള്ള ഉള്ള പ്രകാശനമാണ് ആണ് ഇവിടെ വെക്കേണ്ടത് എന്ന് ഇവിടെ നല്ല വെളിച്ചം കൊടുക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് പിന്നെ ആരൊക്കെയാണ് അകത്തു കയറുന്നത് പുറത്തു പോകുന്നത് എന്ന് നോക്കുകയും ചെയ്യണം അവിടെ എപ്പോഴും ശുചിത്വം സ്വീകരിക്കേണ്ടതാണ് വ്യക്തി ശുചിത്വം വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ വരാതെ ഇരിക്കുന്നത് ആയിരിക്കും നല്ലത് വ്യക്തിശുചിത്വവും ആരോഗ്യവും വളരെ അത്യാവശ്യമാണ് പിന്നെ തലയിൽ ഹെയർ ക്യാപ്പ് അത് വെക്കേണ്ടതുണ്ട് അതുകാരണം മുടി കൊഴിഞ്ഞു താഴെ വീണു മലിനീകരണമുണ്ടാക്കുന്നത് തടയാൻ സാധിക്കും നിങ്ങൾക്ക് ചുമ ചെറുതായി ഉണ്ടെങ്കിലും ഒരു മാസ്ക് വയ്ക്കുക നിങ്ങളുടെ ലാബ് കോട്ടിനെ സ്ഥിരമായി വൃത്തിയാക്കി വയ്ക്കുക കൈ എപ്പോഴും ഇവിടം വരെ കഴുകുക അതിനുശേഷം ആൽക്കഹോൾ വെച്ച് കൈ തുടയ്ക്കുക അതിന് ശേഷമാണ് നമ്മൾ ഗ്ലൌസ് ഇടുന്നത് ഇതുപോലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഒരു പരീക്ഷണശാലയുടെ അകത്തുകടന്നാൽ നിങ്ങൾ അത്രയും നേരം ആത്മാർത്ഥത കാണിക്കുക അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല അത് കാരണം പ്രശ്നങ്ങൾ വരാറുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ മാസ്ക് മാറ്റും അത് കാരണം അവിടെയെല്ലാം പലതും തെറിച്ചു വീഴും ലാമിനാർ ഫ്ലോ ഹുഡിൽ ജോലി ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനമാണ് അതിൻറെ മുന്നിൽ ഇരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എല്ലായിടത്തും തുടയ്ക്കുക എന്നതാണ് അതായത് വശങ്ങളിലും പുറകുവശവും ജോലി കഴിയുമ്പോൾ വീണ്ടും ആൽക്കഹോൾ വെച്ച് ഇവിടെയെല്ലാം തുടയ്ക്കണം നിങ്ങൾ ജോലി തുടങ്ങുന്നതിനു മുമ്പ് ഒന്നു തുടയ്ക്കണം ജോലി കഴിഞ്ഞതിനുശേഷം രാത്രി യുവി ഇട്ടുവയ്ക്കുക അല്ലെങ്കിൽ ഒരു രണ്ടു തൊട്ട് മൂന്നു മണിക്കൂറെങ്കിലും ജോലി തുടങ്ങുന്നതിനു മുൻപ് ഇട്ടുവയ്ക്കുക അല്ലെങ്കിൽ അതിലെ ഫാൻ ഇട്ടു വെച്ചിരുന്നാൽ മതി പക്ഷേ ഫാൻ ആണ് ഇടുന്നത് എങ്കിൽ മുമ്പിലുള്ള അടപ്പ് തുറന്നു വയ്ക്കുക അത് കാരണം വായു സ്ഥിരമായി പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു പിന്നെ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ സ്ഥിരമായി ഒരു സമയം വയ്ക്കുക അ ലാമിനാർ ഫ്ലോ ഹുഡിനെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കാനും വൃത്തിയാക്കാനും വേണ്ടി പിന്നെ നിങ്ങളുടെ ഇൻകുബേറ്റർ നിങ്ങൾ ഇങ്കുബേറ്റർ തുറക്കുമ്പോൾ എപ്പോഴും ശുദ്ധിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്കുബേറ്റർ ആണ് ഒരു പരീക്ഷണശാലയിലെ നിങ്ങളുടെ ജീവരക്ഷിക്കുതകുന്ന കയർ അതിൽ ഓരോരുത്തർക്കും അവരുടേതായ ട്രെ വെക്കേണ്ടതുണ്ട് അതിൽ അടി ഉണ്ടാക്കരുത് ഓരോരുത്തർക്കും അവർക്ക് അനുവദിച്ചിട്ടുള്ള സാധനങ്ങൾ വെക്കേണ്ടതുണ്ട് അതിനെ മൈൽഡ് ആൽക്കഹോൾ വെച്ച് തുടക്കേണ്ടതാണ് നിങ്ങൾ ഓരോ സാധനങ്ങളും വെക്കുന്നതിനു മുമ്പ് എപ്പോഴും ഉറപ്പുവരുത്തുക ഇടയ്ക്കിടയ്ക്ക് എങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലെങ്കിലും റാക്കുകളെ തുടച്ചു വെക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം എപ്പോഴും ഒരു ട്രെ ഇങ്കുബേറ്ററീൻറെ അടിയിൽ വെക്കേണ്ടതുണ്ട് അതിനുള്ള വെള്ളം മാറ്റികൊണ്ടിരിക്കണം ആൻറി മൈക്രോബിയൽ ഡിറ്റർജനൻറ ഉണ്ടെങ്കിൽ അതിനെ ഇതിലേക്ക് കുറച്ചു ഒഴിച്ചു വയ്ക്കുക നിങ്ങളുടെ സാധനം ഇങ്കുബേറ്ററീൻറെ അകത്ത് ആണ് വെക്കുന്നത് എങ്കിൽ അതിനെ തുറക്കുന്നതും അടയ്ക്കുന്നതും കുറയ്ക്കുക അവിടെ എന്തെങ്കിലും തെറിച്ചുവീണു എങ്കിൽ അതിനെ ഉടനെ തുടയ്ക്കണം ട്രെയെടുത്ത് ലാമിനാർ ഫ്ലോയിൽ കൊണ്ടുപോയി തുടച്ചിട്ട് തിരിച്ചുകൊണ്ടുപോയി വയ്ക്കണം അതിനെ ഒഴിവാക്കാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും മറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാർബൺഡയോക്സൈഡ് ഇങ്കുബേറ്ററിൽ കാർബൺഡയോക്സൈഡ് കുറയുന്നത് ചിലതിൽ സെൻസർ ഉണ്ട് അത് കാർബൺഡയോക്സൈഡ് ഒരു പ്രത്യേക അളവിൽ താഴെ പോകുന്നത് കാണിക്കും ഇങ്കുബേറ്ററിൽ വേറെ സെൻസർ ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഇൻക്യുബേറ്റർ ഇവിടെയുണ്ട് അതിൻറെ അടുത്ത് ഒരു സിലിണ്ടറും ഉണ്ട് ഇപ്പോഴിതാ മറ്റൊരു ഇങ്കുബേറ്റർ ഇതിന് മുകളിൽ വയ്ക്കുന്നു അതിനുവേണ്ടിയുള്ള സിലിണ്ടർ അടുത്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് സിലിണ്ടറുകൾ ഇങ്കുബേറ്ററൂമായി ഘടിപ്പിച്ചിരിക്കുന്നു ഞാൻ പറയുന്നു വേറെ രണ്ടു സിലിണ്ടർ ഇതിൻറെ പുറകിൽ വെക്കേണ്ടതാണ് നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോൾ ഇത് തീരാറായി എന്ന് മറന്നു പോകും അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുചെയ്യും എന്നുള്ള ഒരു അവസ്ഥ ആയിരിക്കും അതുകൊണ്ട് നേരത്തെ കാര്യങ്ങൾ എല്ലാം തയ്യാറാക്കി വയ്ക്കുക നിങ്ങൾ ഘടിപ്പിക്കുന്ന സമയത്ത് ഇത് ഒരു ലോഗ് പുസ്തകത്തിൽ എല്ലാം എഴുതി വയ്ക്കുക അതിനുമുകളിൽ ഒരു സ്റ്റിക്കർ വയ്ക്കുക അതിൽ എന്ന് വെച്ചു എന്നതിനെക്കുറിച്ച് ദിവസവും മാസവും വർഷവും രേഖപ്പെടുത്തണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ആശയം ഉണ്ടാകും എത്ര മാസം നിൽക്കുമെന്ന് നല്ല തയ്യാറെടുപ്പുകൾ എന്തായാലും വേണം പലരും ഈ പദ്ധതികൾ അവരുടെ സഹപ്രവർത്തകരുമായി ഉണ്ടാക്കാറില്ല ഈ രണ്ടെണ്ണം തീരുമ്പോൾ അതിനെ വീണ്ടും നിറയ്ക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ആ സമയം ഈ രണ്ടെണ്ണം ഉപയോഗിക്കാനായി മുന്നോട്ടു വരും പിന്നെ ഞാൻ പറഞ്ഞതോർക്കുന്നുണ്ടോ പുറത്ത് ഒരു മുറിയിൽ പിന്തുണയായി വേറെ സിലിണ്ടറുകളും ഉണ്ട് അവ ഇവിടെ വരും അത് ഈ പച്ചയുടെ സ്ഥലം എടുക്കും ഇവിടെ ഉണ്ടായിരുന്ന പച്ച നീലയുടെ സ്ഥലം ഏറ്റെടുക്കും നീലകളെല്ലാം എല്ലാം വീണ്ടും നിറയ്ക്കാൻ വേണ്ടി പോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ച് നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ലോഗ് രജിസ്റ്റർ ഉണ്ട് കൂടെ ആത്മസമർപ്പണം നടത്തിയ ആൾക്കാരും അവർ സാധനങ്ങളൊന്നും തീർന്നു പോകാതെ നോക്കിക്കോളും വെളിച്ചവും ആണ് അത് പോയാൽ വലിയ പ്രശ്നമാകും അപ്പോൾ നമുക്ക് ഇവയെല്ലാം ഇതിനുവേണ്ടി സമർപ്പിച്ച സജ്ജീകരണത്തിൽ വെക്കേണ്ടതാണ് റഫ്രിജറേറ്റർ അതിനായി വച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കണം ഇതൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ ലാമിനാർ ഫ്ലോയെ ഇതിൽ നിന്നും ഒഴിവാക്കാം ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതിയിൽ തടസ്സം വരാറുണ്ട് ഇപ്പൊൾ ഇതൊക്കെയാണ് നമ്മൾ സുരക്ഷയുടെയും ശുദ്ധിയുടെയും കാര്യത്തിലും പിന്തുണയ്ക്കും വേണ്ടി എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ അപ്പോൾ നമ്മൾ ഇവിടെ വച്ച് ഈ ഭാഗം നിർത്തുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം പക്ഷേ നിങ്ങൾ പദ്ധതി ഉണ്ടാക്കുന്നത് സൂക്ഷിച്ചുവേണം